സിംപിൾ ലീനിയർ റിഗ്രഷൻ മോഡൽ അസ്സസ്മെന്റ് R ഉപയോഗിച്ച് സിംപിൾ ലീനിയർ റിഗ്രഷൻ നടപ്പിലാക്കുന്നതിനെക്കുറിച്ചുള്ള രണ്ടാമത്തെ ലെക്ച്ചറിലേക്ക് സ്വാഗതം കഴിഞ്ഞ ലെക്ച്ചറിൽ ഒരു ടെക്സ്റ്റ് ഫയലിൽ നിന്ന് ഒരു ഡാറ്റ എങ്ങനെ വായിക്കാം ഡാറ്റ എങ്ങനെ ദൃശ്യമാക്കാം എങ്ങനെ ഒരു ലീനിയർ മോഡൽ നിർമ്മിക്കാം അത് എങ്ങനെ വ്യാഖ്യാനിക്കാം എന്ന് നമ്മൾ കണ്ടു ഈ ലെക്ച്ചറിൽ നമ്മൾ സിംപിൾ ലീനിയർ റിഗ്രഷൻ മോഡൽ വിലയിരുത്തൽ പരിശോധിക്കാൻ പോകുന്നു ഇതിന്റെ ഭാഗമായി ലീനിയർ മോഡലിലെ സുപ്രധാന ഗുണകങ്ങളെ എങ്ങനെ തിരിച്ചറിയാമെന്നും നമ്മൾ പരിശോധിക്കാൻ പോകുന്നു ഇനി നമുക്ക് മോഡൽ വിലയിരുത്തലിൽ നിന്ന് തുടങ്ങാം മോഡൽ മൂല്യനിർണ്ണയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഉത്തരം നൽകേണ്ട കുറച്ച് ചോദ്യങ്ങളുണ്ട് ഒരു മോഡൽ നിർമ്മിച്ച ശേഷം നമ്മുടെ ലീനിയർ മോഡൽ എത്രത്തോളം മികച്ചതാണെന്ന് ആദ്യം പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പോൾ ലീനിയർ മോഡലിലെ ഏത് ഗുണകങ്ങളാണ് പ്രാധാന്യമുള്ളതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നിങ്ങൾക്ക് ഒന്നിലധികം ഇൻഡിപെൻഡന്റ് വേരിയബിളുകൾ ഉണ്ടെങ്കിൽ അവയിൽ ഏതാണ് പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഈ മോഡൽ കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുമോ എന്നറിയേണ്ടതുണ്ട് ഇതിന്റെ ഭാഗമായി ഡാറ്റയിൽ എന്തെങ്കിലും മോശം അളവുകൾ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നു മോശം അളവുകൾ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് മോഡലിനെ ബാധിക്കുന്ന മറ്റേതെങ്കിലും ഔട്ട്ലൈയറുകൾ ഡാറ്റയിൽ ഉണ്ടോ എന്നാണ് ഈ ചോദ്യം മാത്രം അടുത്ത ലെക്ച്ചറിൽ കൈകാര്യം ചെയ്യും ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾക്ക് എങ്ങനെ ഉത്തരം നൽകാമെന്ന് നോക്കാം നേരത്തെയുള്ള ലെക്ച്ചറിൽ നിന്ന് സമ്മറി എങ്ങനെ കാണാമെന്ന് നമ്മൾ കണ്ടു ഇപ്പോൾ അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കണമെന്നും നമുക്കറിയാം നിങ്ങൾ കമാൻഡ് പ്രവർത്തിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആദ്യത്തെ സമ്മറി ഇതാണ് ഞാൻ ഡാറ്റാ ബോണ്ടുകളിൽ നിന്നുള്ള കൂപ്പൺ റേറ്റ് ഉപയോഗിച്ച് ബിഡ്പ്രൈസ് പിൻവലിച്ചു ബോണ്ട്സ്മോഡ് എന്റെ ലീനിയർ മോഡലായിരുന്നു എനിക്കും ഇവിടെ എസ്റ്റിമേറ്റുകൾ ഉണ്ട് അത് സ്ലോപ്പും ഇന്റര്സെപ്റ്റും അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ നമുക്ക് മോഡൽ വിലയിരുത്തലിന്റെ ആദ്യ തലം നോക്കാം മോഡൽ മൂല്യനിർണ്ണയത്തിന്റെ ആദ്യ തലം R സ്ക്വയർ മൂല്യം ഉപയോഗിച്ചാണ് നടത്തുന്നത് നിങ്ങൾ തിരികെ പോയി നോക്കുകയാണെങ്കിൽ നമ്മളുടെ മോഡലിന്റെ R സ്ക്വയർ മൂല്യം 0 7516 ആണ് ഇപ്പോൾ ഇത് 1 ന് വളരെ അടുത്താണ് വളരെ അടുത്തല്ലെങ്കിലും അത് ഇപ്പോഴും 1 ന് അടുത്താണ് നമ്മൾ വികസിപ്പിച്ച മോഡൽ ന്യായമായും നല്ലതാണെന്നും എന്നാൽ ശരിക്കും നല്ലതല്ലെന്നും നമുക്ക് പറയാം x ഉം y ഉം തമ്മിൽ ഒരു രേഖീയ ബന്ധമുണ്ടെന്ന് നമ്മൾ ആദ്യം ആരംഭിച്ച അനുമാനവും ഇത് നമ്മോട് പറയുന്നു നമ്മൾ ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗും നോക്കാൻ പോകുന്നു ഇതിന്റെ ഭാഗമായി ഗുണകങ്ങളെക്കുറിച്ചുള്ള ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗും തുടർന്ന് പൂർണ്ണവും കുറഞ്ഞതുമായ മോഡലിൽ നമ്മൾ നോക്കാൻ പോകുന്നു ഇപ്പോൾ ഈ പൂർണ്ണവും കുറഞ്ഞതുമായ മോഡൽ എന്താണെന്ന് നോക്കാം ആദ്യം നമുക്ക് ഗുണകങ്ങളെക്കുറിച്ചുള്ള ഹൈപ്പോതെസിസ് ടെസ്റ്റ് നടത്താം നിങ്ങളുടെ ലീനിയർ മോഡൽ നല്ലതാണോ എന്ന് പരിശോധിക്കാൻ എസ്റ്റിമേറ്റ് β̂1 സ്ലോപ്പാണോ അത് സിഗ്നിഫിക്കന്റ് ആണോ എന്ന് നമുക്ക് പരിശോധിക്കാം എന്റെ നൾ ഹൈപോതെസിസ് അത് സ്ലോപ്പ് β̂1 0 ആണ് ഇതിനർത്ഥം എന്റെ പ്രവചിച്ച മൂല്യമായ ŷi β̂0 ഇത് ഇന്റർസെപ്റ്റ് εi ആണ് ഈ εi ആണ് റെസിജ്വൽ എന്ന് നേരത്തെ ലെക്ച്ചറിൽ നാം മനസ്സിലാക്കി ഇപ്പോൾ ഇത് എന്റെ റെഡ്യൂസ്ഡ് മോഡലായി മാറുന്നു ആയതിനാൽ എന്റെ സ്ലോപ്പ് 0 അപ്പോൾ ഈ സാഹചര്യത്തിൽ ആൾട്ടർനേറ്റീവ് ഹൈപോതെസിസ് എന്തായിരിക്കും എന്റെ ആൾട്ടർനേറ്റീവ് ഹൈപോതെസിസ് ഇതാണ് β̂1≠0 പ്രവചിച്ച മൂല്യമായ എന്റെ ŷi β̂₀ β̂ 1xi ε i ഇപ്പോൾ ഇത് എന്റെ ഫുൾ മോഡൽ ആയി മാറുന്നു സ്ലോപ്പ് സിഗ്നിഫിക്കന്റ് ആണോ എന്ന് പരിശോധിക്കാൻ കോൺഫിഡൻസ് ഇന്റർവെൽ കണക്കാക്കുന്നു ഇപ്പോൾ ഈ ടെസ്റ്റ് രണ്ട് വശങ്ങളുള്ള ഒരു പരീക്ഷണമാണ് കാരണം നമ്മൾ β̂ 1 0 അല്ലെങ്കിൽ ≠0 കാണുന്നു 95 ശതമാനം കോൺഫിഡൻസ് അതായത് α 5 ശതമാനം ക്രിട്ടിക്കൽ വാല്യൂ 2 0345 ആണ് ഇപ്പോൾ ഈ ക്രിട്ടിക്കൽ വാല്യൂ എങ്ങനെ കണക്കാക്കാമെന്ന് നോക്കാം അതിനാൽ α 0 05 എന്ന് നമുക്കറിയാം n നിങ്ങളുടെ ഡാറ്റയിലെ നിരീക്ഷണങ്ങളുടെ എണ്ണം ഇതാ ഇപ്പോൾ ഈ കേസിൽ എനിക്ക് 35 നിരീക്ഷണങ്ങളുണ്ട് പി എന്റെ ഇൻഡിപെൻഡന്റ് വേരിയബിളുകളുടെ സംഖ്യയായി മാറുന്നു ഇവിടെ എന്റെ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാത്രമേയുള്ളൂ ഒരു t ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് ഒരു t യുടെ അളവ് എങ്ങനെ കണക്കാക്കാമെന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് മൊഡ്യൂളിൽ നിന്ന് നമുക്കറിയാം ഇപ്പോൾ ഞാൻ p 1 α2 നൽകുന്നു കാരണം ഇത് രണ്ട് വശങ്ങളുള്ള ഒരു ടെസ്റ്റ് ആയതിനാൽ നമ്പർ ഓഫ് ഡിഗ്രിസ് ഓഫ് ഫ്രീഡം n p 1 ആയി നൽകിയിരിക്കുന്നു അതിനാൽ ഈ കമാൻഡ് R ൽ ബിൽറ്റ് ഇൻ ചെയ്തിരിക്കുന്നതിനാൽ നിങ്ങൾ ഇൻപുട്ടുകൾ നൽകേണ്ടതുണ്ട് നിങ്ങൾ p യും ഡിഗ്രിസ് ഓഫ് ഫ്രീഡംയും നൽകേണ്ടതുണ്ട് ഇത് ചെയ്ത ശേഷം നമുക്ക് ക്വാണ്ടൈലുകൾ 2 03 ആയി ലഭിക്കും കോൺഫിഡൻസ് ഇന്റർവെൽ കണക്കാക്കാൻ നമ്മൾ ഇത് ഉപയോഗിക്കാൻ പോകുന്ന നിർണായക മൂല്യമാണിത് ഇപ്പോൾ β̂1 3 0661 അല്ലാതെ മറ്റൊന്നുമല്ല സ്ലോപ്പ് എന്നും അതുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 0 3068 ആണെന്നും സമ്മറിയിൽ നിന്ന് നമ്മൾ നേരത്തെ കണ്ടു കോൺഫിഡൻസ് ഇന്റർവെൽ എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ മൂല്യം ഗുണിക്കണം സ്റ്റാൻഡേർഡ് എറർ ആയി കണക്കാക്കുന്നു അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് താഴത്തെ പരിധി 2 44 ഉം മുകളിലെ പരിധി 3 69 ഉം ആയി ലഭിക്കും ഈ ഇന്റർവെൽ 0 ഉൾക്കൊള്ളുന്നില്ലെന്ന് നമ്മൾക്കറിയാം അതായത് ഇന്റർവെല്ലിന് ഇടയിൽ എവിടെയും 0 ഇല്ല അതിനാൽ സ്ലോപ്പ് β̂1 സിഗ്നിഫിക്കന്റ് ആണെന്ന വസ്തുതയെ ഇത് തന്നെ സൂചിപ്പിക്കുന്നു ഇനി നമുക്ക് മോഡലുകളിൽ ഒരു ഹൈപ്പോതെസിസ് ടെസ്റ്റ് നടത്താം നമ്മൾ എഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നു അതിനാൽ നമുക്ക് തിരികെ പോയി എഫ് സ്റ്റാറ്റിസ്റ്റിക് എന്താണെന്ന് വീണ്ടും പരിശോധിക്കാം എഫ് സ്റ്റാറ്റിസ്റ്റിക് എന്നത് എന്റെ സം സ്ക്വയർ റെസിജ്വൽ ഡിവൈഡഡ് ബൈ സം സ്ക്വയർ എറർ ബൈ ഡിനോമിനേറ്ററിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ സം സ്ക്വയർ റെസിജ്വൽ ഇത് ŷi y̅ സ്ക്വയറുകളുടെ ആകെത്തുക ആണെന്ന് നമുക്കറിയാം അതിനാൽ എനിക്ക് ഒരു ഡിഗ്രി ഫ്രീഡം മാത്രമേയുള്ളൂ കാരണം അത് കണക്കാക്കാൻ ഞാൻ ഒരു പരാമീറ്റർ മാത്രമാണ് ഉപയോഗിക്കുന്നത് അതേസമയം സം സ്ക്വയർ എററിന് ഇത് yi ŷi2 ന്റെ ആകെത്തുകയാണ് ഇപ്പോൾ അത് കണക്കാക്കാൻ ഞാൻ രണ്ട് പാരാമീറ്ററുകൾ ഉപയോഗിക്കുന്നു അതിനാൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2 ആയി കുറഞ്ഞു എനിക്ക് n 2 ആയി ഡിനോമിനേറ്റർ ഉണ്ട് ഇങ്ങനെയാണ് നിങ്ങൾ സം സ്ക്വയർ എറർ കണക്കാക്കുന്നത് അതിനാൽ ബിഡ് പ്രൈസ് ബോണ്ട് ഡോളർ ബിഡ്പ്രൈസിൽ നിന്നല്ലാതെ മറ്റൊന്നുമല്ല ഞാൻ എന്റെ yi സംഗ്രഹിക്കുന്നു എനിക്ക് ഫിറ്റ് ചെയ്ത മൂല്യങ്ങളുണ്ട് ബിഡ് വിലയുടെ മീൻ y̅ എനിക്കറിയാം ഞാൻ ഈ പദത്തെ സ്ക്വയർ ചെയ്യുന്നു ഞാൻ അത് സം ചെയ്യുന്നു ഇപ്പോൾ ഡാറ്റയിൽ നിന്ന് നമ്മളുടെ നിരീക്ഷണങ്ങളുടെ എണ്ണം 35 ആണെന്ന് നമ്മൾക്കറിയാം സൂത്രവാക്യങ്ങളിൽ നിന്ന് നമ്മളുടെ F സ്റ്റാറ്റിസ്റ്റിക്സിനെ SSESSR ആയി കണക്കാക്കുന്നു നമുക്ക് F സ്റ്റാറ്റിസ്റ്റിക് 99 87 ആയി ലഭിക്കും ഇപ്പോൾ ഈ എഫ് സ്റ്റാറ്റിസ്റ്റിക്സ് സമ്മറിയുടെ അവസാന വരിയിൽ നൽകിയിരിക്കുന്നു അതിനാൽ ഈ രണ്ട് പരിശോധനകളിൽ നിന്ന് നമുക്ക് എന്ത് നിഗമനങ്ങളിൽ എത്തിച്ചേരാനാകുമെന്ന് നോക്കാം ടേബിളിൽ നിന്നുള്ള F സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്കറിയാം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1 3 സിഗ്നിഫിക്കൻസ് ലെവൽ 5 ശതമാനത്തിൽ F 4 17 ആണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് 99 87 ആണ് ഇത് ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന തിയററ്റിക്കൽ വാല്യൂവിനേക്കാൾ വലുതാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്ത് നിഗമനത്തിൽ എത്തിച്ചേരാനാകും കോൺഫിഡൻസ് ഇന്റർവെൽൽ 0 ഉൾപ്പെടാത്തതിനാൽ നൾ ഹൈപോതെസിസ് നിരസിക്കാൻ കഴിയുമെന്ന് നമ്മൾക്കറിയാം അതിനാൽ സ്ലോപ്പ് β̂1 ഉം സിഗ്നിഫിക്കന്റ് ആണ് അതിനാൽ ഈ ലെക്ച്ചറിൽ മോഡലിനെ എങ്ങനെ വിലയിരുത്താമെന്ന് നമ്മൾ കണ്ടു ഒരു മോഡൽ വിലയിരുത്തുമ്പോൾ ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾക്ക് എങ്ങനെ ഉത്തരം നൽകാമെന്നും നമ്മൾ പരിശോധിച്ചു സിഗ്നിഫിക്കന്റ് കോയിഫിഷ്യന്റ്കളെ എങ്ങനെ തിരിച്ചറിയാമെന്നും നമ്മൾ കണ്ടു അടുത്ത ലെക്ച്ചറിൽ ഔട്ട്ലൈയറുകൾ എങ്ങനെ തിരിച്ചറിയാമെന്നും ഒരു മോഡൽ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നും നോക്കാം